സെൽ കൾച്ചർ ടെക്നോളജി യുടെ ലെക്ചർ പരമ്പരയിലേക്ക് സ്വാഗതം 4 ആഴ്ചകൾ പിന്നിട്ടു കൊണ്ട് നമ്മൾ കോഴ്സിന്റെ പകുതി വരെ ആയിരിക്കുന്നു ഇതിലൂടെ കോശങ്ങൾ എങ്ങനെ ഒരു സിസ്റ്റത്തിന് വെളിയിൽ വളർത്താം എന്നതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്തു ഇതിനു മുൻപുള്ള ക്ലാസ് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചത് ഒരു പ്രത്യേക ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അവിടെ എങ്ങനെയാണ് റെറ്റിനയിലെ റോഡ് കോൺ കോശങ്ങൾ അഥവാ റോഡ് കോൺ ന്യൂറോൺ അഥവാ ഫോടോറിസെപ്റ്ററുകൾ അതിൻറെ സാധാരണമായി അറിയപ്പെടുന്ന സബ്സ്ട്രേറ്റ് ആയ പോളി ഡി ലൈസിൻക്കാളും കോൺനാവലിൻ സബ്സ്ട്രേറ്റ് മായി ബന്ധിക്കുവാൻ മുൻഗണന കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഇവിടെ മിക്കവാറുമുള്ള ഇൻറർആക്ക്ഷൻസ് ഇലക്ട്രോ സ്റ്റാറ്റിക് ഇൻറർആക്ഷൻസ് ആണ് കാരണം പോസിറ്റീവ് ചാർജുള്ള പോളി ഡി ലൈസിൻ സെൽ ഉപരിതലത്തിലെ നെഗറ്റീവ് ചാർജുള്ള നിമിഷങ്ങളുമായി ഇടപഴകും ഇതിൻറെ ഫലമായാണ് ഇൻറർആക്ഷൻസ് സാധ്യമാവുന്നത് നേരെമറിച്ച് കോൺനവാലിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനെ അഭിനന്ദിച്ചത് കോൺകനവാലിൻ ഒരു കാർബോഹൈഡ്രേറ്റ് ബൈൻഡിംഗ് പ്രോട്ടീനാണ് എന്നതാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന കോശങ്ങളിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് നിമിഷങ്ങൾ ഉള്ളത് സബ്സ്ട്രേറ്റ് ഉപരിതലം ആണെന്ന് വിചാരിച്ച് സബ്സ്ട്രേറ്റ്റ്റിനെ കാർബോഹൈഡ്രേറ്റ് ബൈൻഡിംഗ് പ്രോട്ടീൻ കൊണ്ട് പൂശിയാൽ തന്നത്താനെ ആ സെൽ കുടുങ്ങും അഥവാ കോൺകനവാലിനുമായി അറ്റാച്ചുമെൻറ് പോയിൻറുകൾ ലഭിക്കും ഇവിടം വരെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ലെക്ചറിൽ തീർത്തത് ഇന്ന് മുന്നോട്ട് വീണ്ടും പോകുന്നതിന് മുൻപായി ഈ കോഴ്സിന്റെ പകുതി വരെ ആയതിനാൽ ഇതുവരെ നോക്കിയവയെക്കുറിച്ചും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നന്നതിനെക്കുറിച്ചും നോക്കാം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതുപോലൊരു പ്രാക്ക്ടിക്കൽ കോഴ്സ് നൽകാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ കോഴ്സ് ക്ലാസ് മുറിയിൽ എടുക്കാൻ സാധിക്കുക എന്നത് അതുകൊണ്ട് ഇതിനുള്ള എന്റെ ഉത്തരം ഇതാണ് ശരിയാണ് ഇതൊരു പ്രാക്ക്ടിക്കൽ കോഴ്സാണ് പക്ഷേ ചില വശങ്ങളുണ്ട് കാരണം ഒരു പ്രാക്ക്ടിക്കൽ ചെയ്യുന്നതിനുമുമ്പ് ഒരുപാട് കാര്യങ്ങൾ തലച്ചോറിലൂടെ പോകും മേശക്ക് അരികിൽ വന്നു പിന്നെ വ്യവസ്ഥാപിതമായി ആ സാങ്കേതികതയുടെ ശക്തി അറിയുന്നൊരു വ്യക്തി ആണെങ്കിൽ അറിവുള്ള ഉള്ള വ്യക്തിയായി തിരികെ ബെഞ്ചിലേക്ക് അഥവാ ലാബിലേക്ക് മടങ്ങി പരീക്ഷണങ്ങൾ ചെയ്യാവുന്നതാണ് ഇന്ന് നമുക്കൊരു സാഹചര്യം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പതിയെ സംശയങ്ങളും തീർത്തു ഈ കോഴ്സിന്റെ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാം അവിടെ നമ്മുടെ മുൻപിലായി ഇനിയും 20 ലെക്ചറുകൾ കൂടി ഉണ്ടാവുന്നതാണ് അതിൽ എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആണ് വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നവ എന്നൊക്കെ നോക്കാം ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ആഴ്ച്ചയിലാണ് ഇന്നാണ് ലക്ച്ചർ 1 അതുകൊണ്ട് W5 L1 എപ്പോഴൊക്കെ സെല്ലിനെ പറ്റി സംസാരിക്കുന്നുവോ അപ്പോൾ എല്ലാം ഉദാഹരണമായി സെൽ ന്യൂക്ലിയസ് ഓർഗനല്ലേ എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ ആദ്യം സെല്ലുകൾ പറ്റിപ്പിടിക്കുന്ന സബ്സ്ട്രേറ്റ്റ്റിനെ പറ്റിയാണ് സംസാരിച്ചത് സെൽ അറ്റാച്ചുമെന്റിനായുള്ള സബ്സ്ട്രേറ്റ്റ്റിനെ പറ്റി കഴിഞ്ഞ ആഴ്ച്ച സംസാരിച്ചിരുന്നു ശേഷം സെൽ വളരാൻ സഹായകമാക്കുന്ന മീഡിയത്തെ പറ്റിയും സംസാരിച്ചു തീർച്ചയായും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് സെൽ സെല്ലുകൾ 2 ഉറവിടങ്ങളിൽ നിന്നാണ് എടുക്കുന്നത് അത് മൃഗങ്ങളിൽ നിന്നും നേരിട്ട് എടുക്കുന്നത് ആവാം ഇതിനെ മൃഗങ്ങളിൽ നിന്നും നേരിട്ട് എടുത്ത പ്രൈമറി സെൽ എന്നു വിളിക്കും ഇവയിൽ സെൽ ലൈൻ ഉണ്ടാവും ഇവ മൃഗങ്ങളിൽ നിന്നും നേരിട്ട് എടുത്തതായ്യതിനാൽ സബ് കൾച്ചറും മൃഗങ്ങളുടെതായിരിക്കും ഇവിടെ മനുഷ്യരും മൃഗങ്ങളിൽ ഉൾപ്പെടുന്നു എന്നും ഞാൻ അർത്ഥമാക്കുന്നു സബ് കൾച്ചർ എന്തെന്നാൽ ഈ സെല്ലുകളെ തലമുറകളായി പരിധിയില്ലാതെ വളർത്തുന്നതിനെയാണ് എന്നാൽ പരിധിയില്ലാത്ത സെൽ സൈക്കിൾ എന്നു വിളിക്കാൻ കഴിയില്ല ഈ ബോൾ ഗെയിമിന്റെ ഭാഗമായ വളരെ നിർണായകമായ മറ്റൊരു കാര്യം കൂടി ഉണ്ട് മീഡിയത്തിൻറെ മീഡിയം ഭാഗമായ വാതക കൈമാറ്റം എങ്ങനെ പരിപാലിക്കാം എങ്ങനെ ചെയ്യാം അതോടൊപ്പം pH നിയന്ത്രണം ഇവയൊക്കെയാണ് സെൽ കൾച്ചർനെ പറ്റി സംസാരിക്കുമ്പോൾ പറയാനുള്ള പ്രധാന കാര്യങ്ങൾ ഇപ്പോൾ സബ്സ്ട്രേറ്റ്റ്റിനെ പറ്റിയുള്ള ഒരു ഭാഗം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഓർക്കുന്നണ്ടെങ്കിൽ വ്യത്യസ്തമായ സിന്തറ്റിക് ബയോളജിക്കൽ ഉത്ഭവം ഉള്ള സബ്സ്ട്രേറ്റ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു ഒപ്പം ഇതിനകം ചെയ്തു തീർത്തവയെ പറ്റിയുള്ള ഒരു വിശദമായ പട്ടികയും നമുക്കുണ്ട് എന്നാൽ ഈ സബ്സ്ട്രേറ്റ് ആശയം മറ്റൊരു പുതിയ ആശയത്തിന്റെ തുടക്കമാണ് ഇതൊക്കെയാണ് ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഒരു കണക്ക് എടുക്കൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിലേക്ക് നീങ്ങുന്നു അത് ഇതുവരെ ചർച്ച ചെയ്തതും ഇനി ചർച്ച ചെയ്യാനിരിക്കുന്ന ആശയങ്ങളുടെയും ഒരു പ്രവർത്തികതയായിരിക്കും സബ്സ്ട്രേറ്റ്റ്റിനെ കാര്യത്തിലെ അടുത്ത പുരോഗതി എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും വ്യത്യസ്തമായ ഒരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുമായ സബ്സ്ട്രേറ്റ് എൻജിനിയറിങ് ആണ് ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന അടുത്ത ഘട്ടത്തിലെ പുരോഗതി നമ്മൾ സബ്സ്ട്രേറ്റ്റ്റിനെ പറ്റി സംസാരിച്ചു ഇപ്പോ എൻജിനിയറിങ് സബ്സ്ട്രേറ്റ്റ്റിനെ പറ്റി സംസാരിക്കാം അതുകൊണ്ടെന്താണ് അർത്ഥമാക്കുന്നത് എന്നും സംസാരിക്കാം പിന്നെ 2 ഡൈമെൻഷൻ എഞ്ചിനീയറിംഗ് സബ്സ്ട്രേറ്റ് 3 ഡൈമെൻഷൻ എഞ്ചിനീയറിംഗ് സബ്സ്ട്രേറ്റ് എന്നിവയെ പറ്റി സംസാരിക്കാം ഇതിലേക്ക് ഒക്കെ നമ്മൾ വരും ഇനി മറ്റൊരു ഒരു ആശയം കൂടി ഉണ്ട് നമ്മൾ സബ്സ്ട്രേറ്റ്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ അതിൻറെ അടുത്തഘട്ടത്തെ പുരോഗതിയെ പറ്റി പറഞ്ഞിരുന്നു തീർച്ചയായും നമ്മൾ ഇതിനെപ്പറ്റി ഇവിടെ പറയുന്നതായിരിക്കും എന്നാൽ ഇതുവരെ വരെ മീഡിയം ഡവലപ്പ്മെൻറ്നെ പറ്റി പറഞ്ഞില്ല ആയതിനാൽ മീഡിയം ഡവലപ്പ്മെൻറ്നെ പറ്റി സംസാരിക്കാം എന്നാൽ ഇതിലെ നിർണായകമായ ഒരു കാര്യം ഡിഫൈൻഡ് മീഡിയം ആണ് ചിലപ്പോൾ ആളുകൾ ഇതിനെ സിറം ഫ്രീ മീഡിയം എന്ന അർത്ഥത്തോട് അടുപ്പം ഉള്ളതായി വിളിക്കുന്നു എന്നാൽ ഇതു തന്നെയാണ് ശരിയായ അർത്ഥം എന്ന് ഞാൻ പറയില്ല ഇവിടെയും എന്തുകൊണ്ട് എങ്ങനെ എന്നിങ്ങനെ 2 ചോദ്യങ്ങൾ ഉണ്ടാവാം മീഡിയത്തിൻറെ കാര്യത്തിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതായി വരും നമ്മൾ ഇതുവരെയായിട്ടും മീഡിയം എന്ന ആശയത്തെ പറ്റി ശരിക്കും തുടങ്ങിയിട്ടില്ല എങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ ഇതുവരെ എന്നീ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ സമാനമായ രീതിയാണ് ആണ് എൻജിനീയറിങ് സബ്സ്ട്രേറ്റ് അഥവാ എൻജിനീയട് സബ്സ്ട്രേറ്റ് അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ എൻജിനീയട് സബ്സ്ട്രേറ്റ്റ്റിലും കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ചോദ്യങ്ങൾ എപ്പോഴും എന്തുകൊണ്ട് എങ്ങനെ എന്നു തന്നെ ആയിരിക്കും ഇനി മൂന്നാമത്തെ ഘടകത്തിൻറെ കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗെഷിയസ് എക്സ്ചേഞ്ചും pH ബാലൻസും നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു അതിലേക്ക് കുറച്ചുകൂടി വൃത്തിയായി കടന്നുചെല്ലാം ഇപ്പോൾ ഗെഷിയസ് എക്സ്ചേഞ്ച്നെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗെഷിയസ് എക്സ്ചേഞ്ചും pH ഉം നേരിട്ട് ബന്ധം ഉള്ളവയാണ് എന്നതാണ് മീഡിയം ഡവലപ്പ്മെൻറ്മായി ഇവ ബഫറിംഗ് നോഡുകൾ എന്ന രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അവയെല്ലാം ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ബഫറിംഗ് രീതികൾ CO2 ടാങ്കിനെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ സോഡിയം ബൈകാർബണേറ്റ് ബഫറിംഗ് ആണ് ടാങ്കിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് CO3 ആയിരുന്നു നമ്മൾ ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കും പക്ഷേ ഇതിൽ അല്ലെങ്കിൽ NA2CO3 ഫ്രീ സിസ്റ്റമിനെ കുറച്ച് അറിഞ്ഞു വെക്കുക ഇവ എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളവ ആകുന്നത് ഇവയെല്ലാം പ്രാധാന്യമുള്ളവയാണ് കാരണം നമ്മൾ കൂടുതൽ എൻജിനീയട് സിസ്റ്റമിലേക്കാണ് നീങ്ങുന്നത് ചിപ്പുകളിൽ സെല്ലിനെ വളർത്താൻ കഴിയുന്ന പോലെ വളരെ ചെറിയ ചെറിയ സബ്സ്ട്രേറ്റ്കളിൽ സെല്ലിനെ വളർത്തുന്നത് പോലെയും ചെറിയ ഘടനയിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യം ആയിരുന്നു നമ്മൾ അത് ചെറിയ ഘടനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഇങ്ങനെ ചെറുത് ആക്കുന്നതിനായി ഒന്നുകിൽ വലിയ സിലിണ്ടറും അതിനൊപ്പം വലിയ ഇങ്കുബേറ്റർഉം ഇല്ലാത്ത CO 2 സ്വതന്ത്രമായ സിസ്റ്റം അതല്ലെങ്കിൽ മൊത്തം സജ്ജീകരണവും ചെറുതാകുന്ന രീതിയോ തെരഞ്ഞെടുക്കാം ഇവിടെ വീണ്ടും കുറച്ചുകൂടി വൃത്തിക്ക് എന്തിന് എങ്ങനെ എന്നു പറയണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു വാക്ക് പറഞ്ഞിരുന്നു ലാബ് ഓൺ എ ചിപ്പ് ഇതിലേക്കാണ് മിക്ക ആധുനിക വിദ്യകളും പോകുന്നത് ഒരു പ്രധാന കാര്യം ഒരുപക്ഷേ ലാബ് ഓൺ എ ചിപ്പ് എന്ന ജേണൽ പേര് പോലും നിങ്ങൾ മറന്നെങ്കിൽ ഈ ആശയത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ഈ ആശയത്തെ പറ്റി വളരെ ചിന്തിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം പരിഗണിക്കേണ്ടതില്ല ഇനി അടുത്തതായി സെൽ പ്ലേറ്റിംഗ് നിയമങ്ങളെപ്പറ്റിയും അതെങ്ങനെ ഓരോ ഇനം കോശങ്ങളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതിനെപറ്റിയൊന്നും ഒരു ക്ലസ്റ്റർ പോലെ നോക്കുക്കില്ല ഇതൊക്കെയാണ് ഇനിവരാൻ ഇരിക്കുന്ന അടുത്ത 20 ലെക്ചറിലും നോക്കാൻ പോകുന്ന ആശയങ്ങൾ അതിലൂടെ ഇതെല്ലാം വിശദീകരിക്കും എങ്ങനെ ഇതിനെ സമീപിക്കണമെന്നതിനായി ഒരു വ്യത്യസ്ത മോഡ്യൂൾ തന്നെ ഞാൻ രൂപകല്പന ചെയ്തിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അനാകർഷകമായി തോന്നും മീഡിയം ഇതുപോലെ ഇരിക്കും നിങ്ങൾ അതിലേക്ക് ഇത് ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഇല്ലാതായി പോകും കാരണം ചോദ്യങ്ങൾ വരുന്നത് മീഡിയംനെ പറ്റി സംസാരിക്കുമ്പോൾ ആണ് അല്ലെങ്കിൽ എൻജിനീയട് സബ്സ്ട്രേറ്റി നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആണ് നമുക്ക് ആദ്യത്തെ ആശയം ആയ എന്തിന് എങ്ങനെ എന്നുള്ളതിനെ പറ്റി സംസാരിക്കേണ്ടി ഇരിക്കുന്നു എൻജിനീയട് സബ്സ്ട്രേറ്റ് എന്തിന് എങ്ങനെ എന്നും സെൽ പ്ലേറ്റിംഗ് എന്തിന് എങ്ങനെ എന്നും ബഫറിംഗ് എന്തിന് എങ്ങനെ എന്നും എന്നാൽ എൻജിനീയട് സബ്സ്ട്രേറ്റ് മീഡിയം ഡവലപ്പ്മെൻറ് അഥവാ ഡിഫൈൻഡ് മീഡിയം അതല്ലെങ്കിൽ ലാബ് ഓൺ എ ചിപ്പ് എന്നിങ്ങനെ ഓരോ ഘടകത്തിലേക്കു കടക്കുന്നതിനു മുമ്പ് ഡിഫൈൻഡ് സിസ്റ്റം എന്ന ആശയത്തെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് എല്ലാ വ്യത്യസ്ത സെൽ കൾച്ചർ നിയമങ്ങൾ അഥവാ സെൽ കൾച്ചർ വിദ്യകളിൽ ഉൾക്കൊള്ളുന്ന ആശയം സിസ്റ്റത്തിൻറെ കാര്യത്തിൽ അത് നമ്മൾ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞിരുന്നു ഡിഫൈൻഡ് എന്നതിനെ പറ്റി പറയുമ്പോൾ കൂടുതലും അർത്ഥമാക്കുന്നത് രാസ ഭൌതിക സർഫേസ്സ് പ്രോപ്പർട്ടി യൂണിഫോം ആവർത്തിക്കാവുന്നവ എന്നിവയാണ് ഇത് ഉൽപ്പന്ന വികസനം പോലെയാണ് ആണ് സിസ്റ്റത്തിൻറെ കാര്യത്തിൽ എപ്പോഴൊക്കെ ഡിഫൈൻഡ് സിസ്റ്റമിനെ പറ്റി സംസാരിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ മീഡിയത്തെ പറ്റിയും പറഞ്ഞിരുന്നു അത് വളരെ വ്യക്തമാക്കേണ്ടതുണ്ട് അതിനെ രാസപരമായും ഭൌതികപരമായും വ്യക്തമാക്കണം അതേപോലെ വീണ്ടും സബ്സ്ട്രേറ്റ്റ്റിനെയും രാസപരമായും ഭൌതികപരമായും ഉപരിതല പ്രത്യേകതകളിലൂടെയും വ്യക്തമാക്കണം അപ്പോൾ മീഡിയത്തിൽ സബ്സ്ട്രേറ്റ് ഉണ്ട് ഇനി ചില നിയമങ്ങൾ ഉണ്ട് ടിഷ്യുവിന്റെ ഉറവിടം ടിഷ്യുവിന്റെ ഉറവിട ഏകത എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ ഒരു മൃഗത്തിൽ നിന്നും ടിഷ്യു എടുക്കുന്നു ഒരു പ്രത്യേക പ്രായത്തിൽ ഈ പ്രായത്തിൽ മാറ്റം പാടില്ല ഇനി ഞാൻ അതിൽ മാറ്റം വരുത്തിയാൽ അത് വ്യക്തമാക്കുകയും വേണം ഇതാണ് ഞാൻ പ്രായത്തിൽ വരുത്തിയ മാറ്റം എന്ന് ഏജ് ഐസൊലേഷൻ റൂള് എങ്ങനെയാണ് ആണ് നിങ്ങൾ ടിഷ്യൂ വേർതിരിച്ച് എടുക്കുന്നത് പ്രൈമറി കൾച്ചറിനെ പറ്റി പറയുമ്പോൾ ഇത് ശരിയാണ് അവിടെയാണ് പരമാവതി വ്യതിയാനങ്ങൾ വരുന്നത് ഐസൊലേഷൻ നിയമങ്ങൾ ടിഷ്യു എങ്ങിനെ പ്രോസസ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി മാത്രമല്ല ഈ ആശയങ്ങൾ ഡിസൈൻ അഥവാ ഡിഫൈൻഡ് സിസ്റ്റത്തെ പറ്റി സംസാരിക്കുമ്പോൾ വളരെ ഗൌരവമായി എടുക്കേണ്ടവയാണ് ഇനി ഈ ആഴ്ച മുതൽ നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും അത് ഡിഫൈൻഡ് സിസ്റ്റത്തെ പറ്റിയും അതിൻറെ ആവശ്യകതയെപ്പറ്റിയും ആയിരിക്കും അടുത്ത ലെക്ചറും എന്തുകൊണ്ട് എങ്ങനെ എന്നതിനെപ്പറ്റി തന്നെയായിരിക്കും അതുകൊണ്ട് ഒരു ഡിഫൈൻഡ് സിസ്റ്റത്തിൻറെ ആവശ്യം എന്താണ് എങ്ങനെയാണ് ഒരു ഡിഫൈൻഡ് സിസ്റ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്നതിനെപ്പറ്റി വീണ്ടും എന്തുകൊണ്ട് എങ്ങനെ എന്ന ഈ ബോൾഗയിം തുടരുന്നതായിരിക്കും ഇനി ഞാൻ ഇവിടംകൊണ്ട് നിർത്തുകയാണ് കാരണം ഞാൻ ഇപ്പോൾ ഡിഫൈൻഡ് സിസ്റ്റം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ ഡിഫൈൻഡ് സിസ്റ്റത്തിൻറെ വികസനത്തിന് കാരണമാവുന്നത് എന്തൊക്കെയാണ് എങ്ങനെ ഡിഫൈൻഡ് സിസ്റ്റത്തിലേക്ക് എത്തിച്ചേരാം എന്നിവയെ പറ്റി സംസാരിക്കാം ഇതുവരെ ക്ഷമയോടെ കേട്ടിരുന്നതിൽ നന്ദി അടുത്ത ലെക്ചറിൽ വീണ്ടും ഡിഫൈൻ സിസ്റ്റമിൽ പുനരാരംഭിച്ചുകൊണ്ട് ഡിഫൈൻ സബ്സ്ട്രേറ്റ് ഡിഫൈൻ മീഡിയം പിന്നെ സെൽ കൾച്ചറും അതിൻറെ പ്രോസസിൻറെയും ഡിഫൈൻ ടെക്നിനിക്കിനെ പറ്റിയും ചർച്ച ചെയ്യാം